വർദ്ധിച്ചുവരുന്ന പവർ ഗെയിൻ ലഭിക്കുന്നതിന് നമുക്ക് ഒരു നോൺലീനിയർ ടു പോർട്ട് വേണമെന്ന് ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് നോൺ ലീനിയർ ടു പോർട്ട് നോക്കുക പ്രത്യേകിച്ച് അതിന്റെ ഇൻക്രിമെന്റൽ ലീനിയർ ഇക്വലന്റ് ഗെയിൻ പരമാവധിയാക്കുന്നതിനുള്ള വ്യവസ്ഥ സ്ഥാപിക്കുക ഇതുവരെ ഞങ്ങൾ വൈദ്യുതി ഗെയ്നിനെ കുറിച്ചാണ് സംസാരിച്ചത് എന്നാൽ ലാളിത്യത്തിനായി ഞാൻ വോൾട്ടേജ് ഗെയിൻ പരിഗണിക്കും എന്നാൽ ഞാൻ ചെയ്യുന്ന രീതിയിൽ ഇത് പരമാവധിയാക്കുന്നത് വൈദ്യുതി ഗെയിനും വർദ്ധിപ്പിക്കുമെന്ന് നിങ്ങൾ എളുപ്പത്തിൽ കാണും ലാളിത്യത്തിനായി നമുക്ക് ത്രീ ടെർമിനൽ നോൺലീനിയർ ടു പോർട്ട് ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം ഞങ്ങൾക്ക് പോർട്ട് വൺ വോൾട്ടേജ് പോർട്ട് വൺ കറന്റ് പോർട്ട് ടു വോൾട്ടേജ് പോർട്ട് ടു കറന്റ് എന്നിവയുണ്ട് വോൾട്ടേജുകളുടെ ഫംഗ്ഷനുകളായി വൈദ്യുതധാരകളാണ് നോൺ ലീനിയറിറ്റി നൽകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് പ്രതിനിധാനങ്ങൾ സാധ്യമാണ് ഇപ്പോൾ ചില ഓപ്പറേറ്റിംഗ് പോയിന്റ് ഉണ്ടെന്നും പറയട്ടെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്താണെന്ന് പിന്നീട് നോക്കും അതിനാൽ ഓപ്പറേറ്റിംഗ് പോയിന്റിൽ നമുക്ക് പോർട്ട് വൺ പോർട്ട് ടു കറന്റ് ഉണ്ട് ഇപ്പോൾ ഓപ്പറേറ്റിംഗ് പോയിന്റിന് ചുറ്റുമുള്ള ഇൻക്രിമെന്റൽ ഇക്വിലന്റായ സർക്യൂട്ടുകൾ എടുക്കുകയാണെങ്കിൽ നമുക്കുള്ളത് അത് ഒരു ലീനിയർ ടു പോർട്ട് ആയിരിക്കുമെന്നും നമുക്കറിയാം കാരണം ഇവിടെ വോൾട്ടേജുകളുടെ ഫംഗ്ഷനുകളായി വൈദ്യുതധാരകൾ ആണുള്ളത് ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് y പാരാമീറ്റർ വിവരണം ലഭിക്കും പോർട്ട് ഒന്ന് പോർട്ട് രണ്ട് ഇൻക്രിമെന്റൽ വോൾട്ടേജുകളും കറന്റുകളും ഇവിടെ നൽകിയിരിക്കുന്നു ഇതും അതും അതും എല്ലാം കൂടിക്കൂടി വരുന്ന അളവുകളാണ് ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് ഞങ്ങൾ ഒരു സോഴ്സ് ബന്ധിപ്പിക്കുന്നു ഈ ഇൻക്രിമെന്റൽ ഇക്വലന്റിൽ ഒന്ന് പോർട്ട് ചെയ്യുന്നതിനുള്ള ഒരു സിഗ്നൽ സോഴ്സ് കൂടാതെ ഈ ഇൻക്രിമെന്റൽ ഇക്വലന്റിൽ രണ്ടെണ്ണം പോർട്ട് ചെയ്ത് ഗെയിൻ വിലയിരുത്തുന്നതിന് ഒരു ലോഡ് ഇത് ഇപ്പോഴും ഇൻക്രിമെന്റൽ ഇക്വലന്റാണ് ഗെയിൻ പരമാവധിയാക്കുന്നതിന് ഞങ്ങൾക്ക് ചില നിയന്ത്രണങ്ങൾ ലഭിക്കും തുടർന്ന് ഞങ്ങൾ ആ നിയന്ത്രണങ്ങൾ നോക്കുകയും വലിയ സിഗ്നലിന് ഇത് എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് നോക്കുക നോൺലീനിയർ ടു പോർട്ടിന്റെ ആകെ സ്വഭാവസവിശേഷതകളായ f1 f2 ഇപ്പോൾ നമുക്ക് ഒരു സിഗ്നൽ സോഴ്സ് VS റെസിസ്റ്റൻസ് RS ന്റെ കൂടെ ഉണ്ടെന്ന് അനുമാനിക്കാം ഇത് ഏത് സോഴ്സിന്റെയും പ്രതിനിധാനമാണ് ചില സെൻസറുകളിൽ നിന്ന് സിഗ്നലുകൾ വരാം ഞാൻ സംസാരിക്കുന്ന മൈക്രോഫോൺ നോക്കാം അത് മറ്റേതെങ്കിലും ഘട്ടത്തിൽ നിന്നാകാം മറ്റൊരു ആംപ്ലിഫയർ ഔട്ട്പുട്ട് പറയാം അല്ലെങ്കിൽ അത് എന്തുമാകാം ഒരു പ്രതിരോധം ഉള്ള ശ്രേണിയിലുള്ള ഒരു വോൾട്ടേജ് സ്രോതസ്സിനാൽ ഇത് എല്ലായ്പ്പോഴും പ്രതിനിധീകരിക്കപ്പെടാം എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം ഇപ്പോൾ ഞങ്ങൾ അതിനെ ഒരു ലീനിയർ ടു പോർട്ടിലേക്ക് ബന്ധിപ്പിക്കുന്നു ഇത് നോൺലീനിയർ ടു പോർട്ടിന്റെ ഇൻക്രിമെന്റൽ തുല്യമാണെന്ന് ഞങ്ങൾക്കറിയാം കാരണം വർദ്ധിച്ചു വരുന്ന പവർ ഗെയിൻ ലഭിക്കുന്നതിന് ഞങ്ങൾക്ക് ഒരു നോൺലീനിയർ ടു പോർട്ട് ആവശ്യമാണെന്ന് ഞങ്ങൾ ഇതിനകം തന്നെ സ്ഥാപിക്കുന്നു അതിനാൽ ഇത് ഒരു നോൺലീനിയർ ടു പോർട്ടിന്റെ ഇൻക്രിമെന്റൽ ഇക്വലന്റാണ് ഈ ഇൻക്രിമെന്റൽ ഇക്വലന്റായ സർക്യൂട്ട് എങ്ങനെ കൊണ്ടുവരുമെന്ന് ഞങ്ങൾ നിർദ്ദിഷ്ട ഉപകരണത്തിലേക്ക് പോകുമ്പോൾ പിന്നീട് നോക്കാം സിഗ്നൽ സോഴ്സ് പോർട്ട് ഒന്നിലേക്കും ലോഡ് പോർട്ട് രണ്ടിലേക്കും ബന്ധിപ്പിച്ചിരിക്കുന്ന തരത്തിലാണ് ഞങ്ങളുടെ സർക്യൂട്ടിന്റെ ഇൻക്രിമെന്റൽ ഇക്വലന്റ് എന്ന് ഞങ്ങൾ അനുമാനിക്കും അതിനാൽ ഈ ഭാഗം വളരെ ലളിതമാണ് നിങ്ങൾ കാണുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് Vo യ്ക്ക് ഞങ്ങൾ ഇപ്പോൾ പരിഹരിക്കേണ്ടതുണ്ട് അത് ഈ V2 ന് സമാനമാണ് അതിനാൽ അടിസ്ഥാനപരമായി ഞങ്ങൾ V2 ന് പരിഹരിക്കേണ്ടതുണ്ട് അതിനാൽ ആദ്യം നമുക്ക് ടു പോർട്ട് വഴി ബന്ധമുണ്ട് ഇത് പരിചിതമായിരിക്കണം സാധാരണ സർക്യൂട്ട് വിശകലനത്തിൽ നിന്ന് നിങ്ങൾക്ക് സർക്യൂട്ടിലെ ഓരോ മൂലകവും അതിന്റെ വോൾട്ടേജുകളും വൈദ്യുതധാരകളും തമ്മിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു നിങ്ങൾ എല്ലാ നിയന്ത്രണങ്ങളും എടുത്ത് സർക്യൂട്ട് പരിഹരിക്കുക അതിനാൽ ഈ നോൺലീനിയർ ടു പോർട്ട് വഴി y പാരാമീറ്ററുകൾക്ക് തുല്യമായ സർക്യൂട്ട് ആയ ചാലകവും നിയന്ത്രണ ഉറവിടങ്ങളും ഉപയോഗിച്ച് ഇതിന് തുല്യമായ ചെറിയ സിഗ്നൽ വരയ്ക്കാനും എനിക്ക് കഴിയും അതിനാൽ അതുതന്നെയായിരിക്കും y11 V1 y12 V2 i2 എന്നിവ y21 V1 y22 V2 ആയിരിക്കും ഇതുകൂടാതെ ഞങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് ഒരു ബന്ധമുണ്ട് ഈ റെസിസ്റ്ററിലുള്ള വോൾട്ടേജ് VS V1 ആണെന്ന് നമുക്കറിയാം അതിനാൽ ഇതിലൂടെയുള്ള കറന്റ് i1 ന് തുല്യമാണ് തവണ 1RS അല്ലെങ്കിൽ GS ആയ ചാലകത ഈ വശത്ത് i2 എന്നത് RL ൽ ഒഴുകുന്ന കറന്റാണ് എന്നാൽ താഴെ നിന്ന് മുകളിലേക്ക് അതിനാൽ ഇത് അതിന്റെ V2 ആയ വോൾട്ടേജും i2 ആയ കറന്റും തമ്മിൽ ഒരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു അതിനാൽ നമ്മുടെ പക്കലുള്ളത് i2 ന് തുല്യമായിരിക്കും GL തവണ V2 i2 മുകളിലേക്ക് ഒഴുകുന്നതിനാൽ ഇത് സംഭവിക്കുന്നു അതിനാൽ ഇപ്പോൾ നമുക്ക് ഈ നാല് സമവാക്യങ്ങളും നാല് വേരിയബിളുകളും ഉണ്ട് അതിനാൽ i1 V1 i2 V2 എന്നിവ പരിഹരിക്കേണ്ടതുണ്ട് ഞങ്ങൾക്ക് താൽപ്പര്യമുള്ളത് അതിന്റെ V2 ആണ് V2 ഉം സോഴ്സ് വോൾട്ടേജ് VS ഉം തമ്മിലുള്ള ബന്ധം നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ ഈ സമയത്ത് വീഡിയോ താൽക്കാലികമായി നിർത്തി ഈ ഒരേസമയം സമവാക്യങ്ങൾ സ്വയം പരിഹരിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു നിങ്ങൾക്ക് സ്വയം പരിഹരിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് രേഖീയ സമവാക്യങ്ങളുടെ ഒരു ലളിതമായ സംവിധാനമാണ് അതിനാൽ നമുക്ക് നോക്കാം കണക്കുകൂട്ടലിന്റെ ഓരോ ഘട്ടവും ഞാൻ കാണിക്കില്ല പക്ഷേ അത് എങ്ങനെ ചെയ്യുന്നുവെന്ന് കാണിക്കും ഒന്നാമതായി നിങ്ങൾക്ക് ഇത് ഇതിലേക്ക് പകരം വയ്ക്കാം ഈ കാര്യങ്ങളിൽ നിന്ന് i1 i2 V1 എന്നിവ ഒഴിവാക്കണം അതിനാൽ ഇതിലേക്ക് മാറ്റിസ്ഥാപിക്കുന്നതിലൂടെ നമുക്ക് V1 നും V2 നും ഇടയിൽ ഒരു ബന്ധം ലഭിക്കും അതിനാൽ നമുക്ക് V1 ന് തുല്യമായി y22 GL y21 V2 ലഭിക്കുമെന്ന് നമുക്ക് കാണാം പിന്നെ നമുക്ക് ഇതും ഇതും എടുത്ത് ഇവിടെ വയ്ക്കാം അതിനാൽ ഇതിലേക്ക് പകരം വയ്ക്കുമ്പോൾ നമുക്ക് GS y11 V1 y12 V2 ലഭിക്കും കൂടാതെ ഈ V1 പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇതിലേക്ക് പകരം വയ്ക്കാം നിങ്ങൾക്ക് അന്തിമ എക്സ്പ്രഷൻ ലഭിക്കുകയാണെങ്കിൽ v2 vs y11 GS y22 GL y12 y21 എന്നതിന് തുല്യമായിരിക്കുമെന്ന് നിങ്ങൾ കാണും അതിനാൽ ഇത് വോൾട്ടേജ് ഗെയിനിനായുള്ള എക്സ്പ്രഷൻ ആണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പവർ ഗെയിനിനായി ഒരു പദപ്രയോഗം നടത്താനും കഴിയും അത് ബന്ധപ്പെട്ടതായിരിക്കും പക്ഷേ തീർച്ചയായും ഇതിനേക്കാൾ കുറച്ച് സങ്കീർണ്ണമാണ് ഔട്ട്പുട്ട് പവർ 2 RL ആയിരിക്കും ഇൻപുട്ട് പവർ VS ന്റെ സോഴ്സ് വോൾട്ടേജും RS ന്റെ സോഴ്സ് പ്രതിരോധവുമുള്ള സോഴ്സിൽ നിന്നുള്ള ലഭ്യമായ പവർ ഇത് പരമാവധി പവർ ട്രാൻസ്ഫറിൽ നിന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ലഭ്യമായ പരമാവധി പവർ ആണ് അത് 24 RS ആണ് നിങ്ങൾക്ക് ഇത് കണക്കാക്കാം ഇതാണ് പവർ ഗെയിൻ ഇപ്പോൾ ഈ പദപ്രയോഗം ഇതിനെക്കാൾ കൂടുതൽ കുഴപ്പമുള്ളതായിരിക്കും അതിനാൽ വലിയ പവർ നേടുക എന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശമെങ്കിലും ഞാൻ ഇത് പരമാവധിയാക്കും ഇത് പരമാവധിയാക്കുന്നതിലൂടെ നാം എടുക്കുന്ന നിഗമനം അത് പരമാവധിയാക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന അതേ നിഗമനം തന്നെയായിരിക്കും അതിനാൽ ഞാൻ ഇപ്പോൾ ലളിതമായ പദപ്രയോഗത്തിൽ ഉറച്ചുനിൽക്കും എന്നാൽ നിങ്ങൾക്ക് ഒരു എക്സസൈസെന്ന നിലയിൽ ഇത് ചെയ്യാൻ ശ്രമിക്കാം നിങ്ങൾക്ക് അതേ ഉത്തരം ലഭിക്കുമെന്ന് നിങ്ങൾ കണ്ടെത്തും എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇത് കണക്കാക്കിയത് ഞങ്ങൾക്ക് കുറച്ച് ഗെയിനുണ്ട് തീർച്ചയായും ഞങ്ങൾ അത്യാഗ്രഹികളായതിനാൽ കഴിയുന്നത്ര വലിയ ഗെയിൻ നേടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതായത് ഞങ്ങൾക്ക് ഒരു ചെറിയ സിഗ്നൽ ഉണ്ട് അത് കഴിയുന്നത്ര വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആംപ്ലിഫയറുകൾ തിരിച്ചറിയുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം വലിയ അളവിൽ ആംപ്ലിഫൈ ചെയ്യുന്നതിന് ധാരാളം നേട്ടങ്ങളുണ്ട് ഇപ്പോൾ വ്യക്തമായ ഒരു കാര്യം അതിനാൽ നിങ്ങൾക്ക് ചെറിയ സിഗ്നൽ വലുതാക്കാൻ കഴിയും എന്നാൽ ഫലപ്രദമായ നെഗറ്റീവ് ഫീഡ്ബാക്ക് സിസ്റ്റം സാക്ഷാത്കരിക്കുന്നതിന് നിങ്ങൾക്ക് വലിയ ഗെയിൻ ഉണ്ടായിരിക്കണമെന്ന് നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ പ്രാഥമികങ്ങളിൽ നിന്ന് നിങ്ങൾക്കറിയാം അതിനാൽ വലിയ ഗെയിൻ വളരെ ഉപയോഗപ്രദമാണ് അതാണ് ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നത്